ഒരിക്കൽ കൂടി സ്വാഗതം ഇത് അമ്പത്തിയേഴാം നമ്പർ ലക്ച്ചർ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹോമോജീനിയസ് ലീനിയർ സമവാക്യങ്ങളുടെ സൊലൂഷന്കളെക്കുറിച്ചാണ് അഥവാ നമ്മൾ സംസാരിക്കുന്നത് കോംപ്ലിമെൻററി ഫംഗ്ഷൻകളെക്കുറിച്ചാണ് കോംപ്ലിമെൻററി ഫംഗ്ഷൻ എന്നത് ഒരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻ അല്ലാതെ മറ്റൊന്നുമല്ല കോംപ്ലിമെൻററി ഫംഗ്ഷൻ എങ്ങനെ കണ്ടെത്താമെന്നതിനുള്ള നിരവധി സൊല്യൂഷൻ ടെക്നിക്കുകളും നമ്മൾ ചർച്ച ചെയ്യും ഇവിടെ നമ്മൾ അത്തരമൊരു ഡിഫറൻഷ്യൽ സമവാക്യം പരിഗണിക്കും കോൺസ്റ്റൻറ് കോയിഫിഷൻറ്കളോട് കൂടിയ ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യം ഇവിടെയുള്ള എന്നീ ഗുണകങ്ങൾ എല്ലാം കോൺസ്റ്റന്റ്കൾ ആയിട്ട് കണക്കാക്കപ്പെടുന്നു ഈ സമവാക്യത്തെ ഓപ്പറേറ്റർ ഫോമിന്റെ അടിസ്ഥാനത്തിൽ എന്നാക്കി എഴുതാം എന്ന് നമ്മൾ കഴിഞ്ഞ ലക്ച്ചറിൽ ത്തിൽ ചർച്ച ചെയ്തിരുന്നു പോളിനോമിയൽകളിൽ ചെയ്യുന്ന ബീജഗണിത ക്രിയകൾ പോലെ ഈ ഓപ്പറേറ്റർമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ ലക്ച്ചറിൽ നമ്മൾ നിരീക്ഷിക്കുകയുമുണ്ടായി അതിനാൽ നമുക്ക് ഇതിനെ ഫാക്റ്ററൈസ് ചെയ്തു എന്ന രൂപത്തിൽ എഴുതാൻ കഴിയുമെന്നും കൂടാതെ ഓർഡർ ഡെറിവേറ്റീവ് ഉള്ളതിനാൽ ഇത് നമുക്ക് തന്നിരിക്കുന്നതിനോട് തുല്യമാണെന്നും അവസാനത്തെ ലക്ച്ചറിൽ തെളിയിച്ചിട്ടുണ്ട് തീർച്ചയായും വലതുവശത്ത് ഇവിടെ 0 ആണ് നമ്മൾ സംസാരിക്കുന്നത് ഹോമോജീനിയസ് സമവാക്യത്തെക്കുറിച്ചാണ് അതിനാൽ വലതുവശത്ത് 0 ആയി എടുക്കും ഓപ്പറേറ്റർ യെ ഒരു സംഖ്യയായി കണക്കാക്കുന്നു സാധാരണ ഗുണന നിയമങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു ഇതായിരുന്നു അവസാന ലക്ച്ചറിൽ നിരീക്ഷണം ഇന്ന് നമ്മൾ ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊലൂഷനിലേക്ക് എത്തിച്ചേരും ലളിതമാക്കാൻ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം അതായത് വലതുവശത്ത് പൂജ്യവും കോയിഫിഷൻറ്കൾ എന്നിവയും ആയിട്ടുള്ള സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജിയസ് ഡിഫറൻഷ്യൽ സമവാക്യം പരിഗണിക്കുന്നു ഇതിൻറെ ജനറൽ സൊലൂഷൻ എങ്ങനെ നേടാം അല്ലെങ്കിൽ ഈ ലീനിയർ സമവാക്യത്തിൻറെ കോംപ്ലിമെൻററി ഫംഗ്ഷൻ എങ്ങനെ ലഭിക്കും ആദ്യം നമ്മൾ ഓപ്പറേറ്റർ രൂപത്തിൽ സമവാക്യം എഴുതേണ്ടതുണ്ട് അതിനാൽ ഇവിടെ ഇത് ആയിരിക്കും ഈ ഓപ്പറേറ്റർ സമവാക്യത്തിൽ നിന്ന് നമ്മൾ സഹായ സമവാക്യം അഥവാ ഓക്സിലറി സമവാക്യം എഴുതുന്നു ഈ സഹായ സമവാക്യം എങ്ങനെ ലഭിക്കും ഇത് ഓപ്പറേറ്റർ സമവാക്യത്തിൽ നിന്നുള്ളതാണ് ഓപ്പറേറ്ററായ യ്ക്ക് പകരം എന്ന് മാറ്റി എഴുതി ലഭിക്കുന്ന എന്ന പോളിനോമിയൽ സമവാക്യമാണത് ആദ്യത്തെ കേസ് ആയിട്ട് നമ്മൾ പരിഗണിക്കാൻ പോകുന്നത് ആവർത്തിക്കാത്ത റൂട്ടുകൾക്കായി ഉള്ളതാണ് അതായത് ഓക്സിലറി സമവാക്യത്തിൻറെ റൂട്ടുകൾ ഇവിടെ ആവർത്തിക്കില്ല ഇവിടെ ഓക്സിലറി സമവാക്യം ഒരു സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ സമവാക്യം ആയിരിക്കും എന്നിവ ഓക്സിലറി സമവാക്യത്തിൻറെ ആവർത്തിക്കാത്ത രണ്ട് റൂട്ടുകൾ ആണെന്ന് കരുതുക അർത്ഥം എന്നിവ രണ്ട് വ്യത്യസ്ത റൂട്ടുകൾ ആയിരിക്കും അപ്പോൾ നമുക്ക് നൽകിയ എന്ന ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും എന്നിവ റൂട്ടുകൾ ആണെന്ന് അറിയുന്നതിനാൽ നമുക്ക് ഈ സമവാക്യത്തെ ഘടകങ്ങളാക്കി എഴുതാം അതായത് എന്നിങ്ങനെ എഴുതാം നമ്മൾ ആദ്യം എന്ന സമവാക്യം പരിഗണിക്കുന്നു ഇവിടെ എന്ന സമവാക്യത്തിന്റെ സൊലൂഷൻ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഇത് തന്നിരിക്കുന്ന സമവാക്യത്തെ തൃപ്തിപ്പെടുത്തും കാരണം ഈ ഇവിടെ എന്ന് നൽകുന്നുവെന്ന് നമ്മൾക്കറിയാമെങ്കിൽ എന്ന് ഓപ്പറേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 0 ലഭിക്കും അതിനാൽ ഇവിടെയുള്ള എന്ന ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊലൂഷൻ കാണുക എന്നതാണ് ഇവിടത്തെ ആശയം ഇവിടെ ലഭിക്കുന്ന ഏതൊരു സൊലൂഷൻഉം തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊലൂഷൻ ആയിരിക്കും ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊല്യൂഷൻ എങ്ങനെ നേടാം അത് എളുപ്പമാണ് നമുക്കുള്ളത് ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യമാണ് അതിനെ നമുക്ക് എന്ന ഫോമിൽ എഴുതാൻ കഴിയും ഇത് നമുക്ക് പരിഹരിക്കാനാകും ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ് ഇതിൽ യെ ഇടതു വശത്തേക്കും നെ വലതു വശത്തേക്കും എടുക്കാം തുടർന്ന് അതിനെ ഇൻഡഗ്രേറ്റ് ചെയ്യാൻ കഴിയും നമുക്ക് എന്ന് കിട്ടുന്നു ഇതേ പ്രവർത്തനങ്ങൾ നമുക്ക് എന്നെടുക്കുകയാണെങ്കിലും ആവർത്തിക്കാൻ കഴിയും അതായത് മുകളിലുള്ള ഈ സമവാക്യത്തിന്റെ ഏതൊരു സൊലൂഷൻഉം എന്ന സമവാക്യത്തിന്റെ സൊലൂഷൻ ആയിരിക്കും നമ്മൾ മുകളിൽ പ്രയോഗിച്ച അതേ ആശയം ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇത് പരിഹരിച്ചാൽ എന്ന സൊലൂഷൻ ലഭിക്കും അതിനാൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന് ഇപ്പോൾ നമുക്ക് രണ്ട് സൊലൂഷന്കൾ ഉണ്ട് ഒന്ന് മറ്റൊന്ന് അതോടൊപ്പം ഈ രണ്ട് സൊലൂഷൻകളും ലീനിയർലി ഇൻഡിപെൻഡൻറ് സൊലൂഷൻകളും ആണ് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ് സൊലൂഷൻകൾ നമുക്കുണ്ടെങ്കിൽ അവയുടെ ലീനിയർ കോമ്പിനേഷൻ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തും എന്ന് നമുക്കറിയാം അതിനാൽ നമ്മുടെ സെക്കൻഡ് ഓഡർ ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ ജനറൽ സൊല്യൂഷൻ എന്ന് എഴുതാം അതിനാൽ നമ്മൾ എന്താണ് പഠിച്ചത് നമുക്ക് ഇവിടെ സെക്കൻഡ് ഓർഡർ ലീനിയർ സമവാക്യം ഉണ്ടെങ്കിൽ ഓക്സിലറി സമവാക്യത്തിന്റെ റൂട്ടുകൾ നമുക്ക് കണ്ടെത്താനാകും ഈ സമവാക്യത്തിന്റെ റൂട്ടുകൾ എന്നിങ്ങനെയായിരുന്നു അത് ഇതിനകം വെക്റ്റർ രൂപത്തിൽ എഴുതിയിട്ടുണ്ട് അതോടൊപ്പം സൊലൂഷൻ ആയിരിക്കും എന്നാൽ നമുക്ക് രണ്ട് വ്യത്യസ്ത റൂട്ടുകൾ ഉള്ളപ്പോൾ ആണ് ഇത് സംഭവിച്ചത് കാരണം ഈ സാഹചര്യത്തിൽ എന്നീ രണ്ട് സൊലൂഷൻഉകൾ മാത്രമേ ലീനിയർലി ഇൻഡിപെൻഡൻറ് സൊലൂഷൻഉകൾ ആയിട്ടുള്ളൂ നമുക്ക് എന്നിവ വ്യത്യസ്തമായിട്ടുണ്ടെങ്കിൽ എന്നിവയ്ക്ക് ഒരേ മൂല്യമാണെങ്കിൽ അതായത് ആവർത്തിച്ചുള്ള റൂട്ട് ആണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ് ആയ രണ്ട് സൊലൂഷൻഉകൾ സൃഷ്ടിക്കുന്നില്ല നമുക്ക് ജനറൽ സൊലൂഷൻ കണക്കാക്കാൻ മറ്റൊരു മാർഗം ഉണ്ടായിരിക്കണം ആദ്യം വ്യത്യസ്തമായ റൂട്ടുകളുടെ കാര്യത്തിലേക്ക് തന്നെ മടങ്ങുന്നു നമുക്ക് വ്യത്യസ്തമായ റൂട്ടുകൾ ഉള്ളപ്പോൾ ഇത് ജനറലൈസ് ചെയ്യാനും കഴിയും നിങ്ങൾക്ക് ഒരു ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം ഉണ്ടെങ്കിൽ അതിൽ ഓപ്പറേറ്റർ യെ കൊണ്ട് മാറ്റിയെഴുതി ലഭിക്കുന്ന എന്ന ഓക്സിലറി സമവാക്യത്തിൻറെ വ്യത്യസ്തങ്ങളായ റൂട്ടുകൾ ആണ് എന്നിവ എങ്കിൽ എന്നിവ ലീനിയർലി ഇൻഡിപെൻഡൻറ് സൊലൂഷൻഉകൾ ആണെന്ന് എഴുതാം അതോടൊപ്പം അവയുടെ ലീനിയർ കോമ്പിനേഷൻ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊലൂഷൻ ആയിരിക്കും വ്യത്യസ്ത റൂട്ടുകൾ ഉണ്ടാകുമ്പോഴുള്ള ജനറലൈസേഷൻ ഇതാണ് അടുത്തതായി ആവർത്തിച്ചുള്ള റൂട്ടുകളുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യും നമുക്ക് ആവർത്തിച്ചുള്ള റൂട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും വീണ്ടും സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ കാര്യം തന്നെ നമ്മൾ ഇവിടെ പരിഗണിക്കും സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ ഡിഫറൻഷ്യൽ ഭാഗം ഉപയോഗിച്ച് ഘടകങ്ങളാക്കി എന്ന് എഴുതാം കാരണം ഇവിടെ ഒരേ റൂട്ടുകൾ ആണ് നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ട്രിക്ക് ഉപയോഗിക്കും എന്ന സമവാക്യത്തിൽ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നു ഇപ്പോൾ ഇവിടെ നൽകിയ സമവാക്യം എന്ന് എഴുതാം ഇത് ൽ ഉള്ള ഒരു ഫസ്റ്റ് ഓർഡർ സമവാക്യമാണ് ഇത് പരിഹരിച്ച് ആദ്യം നമുക്ക് കണ്ടെത്താം തുടർന്ന് നമുക്ക് കണ്ടെത്താനാകും അതിനാൽ ആ രീതിയിൽ നമുക്ക് നൽകിയ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊലൂഷൻ ലഭിക്കും ഇവിടെ എന്നതു എന്ന ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊലൂഷൻആയിരിക്കും ഇനി ഇപ്പോൾ നമ്മൾ എന്ന സമവാക്യം പരിഹരിക്കുന്നു ഇതിൽ എന്ന് കൊടുത്താൽ സമവാക്യത്തെ എന്ന് എഴുതാം

ഇവിടെ നമുക്ക് യുടെ ഡിഫറൻഷ്യൽ ഉണ്ട് അതിനാൽ ഇത് ൽ ഉള്ള ഒരു ലീനിയർ സമവാക്യമാണ് ഇൻറഗ്രേറ്റിംഗ് ഫാക്ടർ ആയി ഇവിടെ ലഭിക്കുന്നത് എന്നാണ് ലീനിയർ സമവാക്യം പരിഹരിക്കുന്നതിനെ കുറിച്ച് അവസാന ലക്ച്ചറിൽ നമ്മൾ ഇതിനകം ചർച്ചചെയ്തു അതിനാൽ സൊലൂഷൻ അതായത് എന്നു ലഭിക്കുന്നു റൂട്ടുകൾ തവണ ആവർത്തിക്കുന്നു എന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സാമാന്യവൽക്കരണം ലഭിക്കുന്നു നമുക്ക് ഒരു ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം ഉണ്ടെങ്കിൽ അതിന് റൂട്ടുകൾ ലഭിക്കുന്നു അവയിൽ ചിലതൊക്കെ ആവർത്തിക്കാം എന്ന റൂട്ട് തവണ ആവർത്തിക്കുന്നു എന്ന് അനുമാനിക്കുന്നു എങ്കിൽ നമുക്ക് എന്ന ഫോമിൽ സൊലൂഷൻ ലഭിക്കുന്നു ഇമാജിനറി റൂട്ടുകളുടെ കേസ് വ്യത്യസ്തങ്ങളായ റൂട്ടുകളുടെയും ആവർത്തിക്കുന്ന റൂട്ടുകളുടെയും കാര്യങ്ങൾ നമ്മൾ ഇതിനകം ചർച്ച ചെയ്തു ഇമാജിനറി റൂട്ടിന്റെ കാര്യത്തിൽ നമ്മൾക്ക് സമാന ആശയം ഉണ്ട് എന്നിവ നൽകിയിരിക്കുന്ന ഓക്സിലറി സമവാക്യത്തിൻറെ റൂട്ടുകൾ ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു അഥവാ രണ്ട് കോഞ്ചുഗേറ്റ് റൂട്ടുകൾ ആണെന്ന് അനുമാനിക്കുന്നു വ്യത്യസ്തങ്ങളായ റൂട്ട്കളെക്കുറിച്ച് ആദ്യത്തെ കേസിൽ ചർച്ച ചെയ്തതുപോലെ പോലെ ഇവിടെ നമ്മൾ പിന്തുടരുന്നു അതിനാൽ സൊലൂഷൻ കൃത്യമായി നമുക്ക് എഴുതാം

അടുത്തതായി ഇതിന്റെ സാമാന്യവൽക്കരണം നമ്മൾ പരിഗണിക്കും നമുക്ക് തവണ ആവർത്തിക്കുന്ന എന്നിവ പോലോത്ത ഇമാജിനറി റൂട്ടുകൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സൊല്യൂഷൻ ആവർത്തിക്കുന്ന റിയൽ റൂട്ട്കളെക്കുറിച്ച് മുമ്പ് ചർച്ച ചെയ്ത അതേ ആശയം നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നു ഈ കേസിൽ എന്ന സൊല്യൂഷൻ ലഭിക്കുന്നു ഇതിൽ ഇവിടെ പൊതുവായ ഒരു പദമാണ് ഇതിലെ കോൺസ്റ്റന്റ്കൾ ആയിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് മാത്രമേ പോളിനോമിയൽ പദങ്ങളിൽ പ്രവേശിക്കൂ ഇതിലെ കളും കളും ഇപ്പോൾ കോൺസ്റ്റന്റ്കളാണ് അതിനാൽ വ്യത്യസ്തങ്ങളായതോ ആവർത്തിച്ചുള്ളതോ ആയ റിയൽ റൂട്ടുകളുടെ കാര്യത്തിൽ എന്തൊക്കെയാണോ ഉരുത്തിരിഞ്ഞിട്ടുള്ളത് അവ ഇമാജിനറി റൂട്ടുകകളുടെ കാര്യത്തിലും കൃത്യമായി പിന്തുടരുന്നു കോംപ്ലിമെൻററി ഫംഗ്ഷൻറെ കാര്യത്തിൽ ഉള്ളതെല്ലാം ഇവിടെ സംഗ്രഹിക്കുന്നു നമുക്ക് എന്ന രൂപത്തിൽ ഒരു ഡിഫറൻഷ്യൽ സമവാക്യം തരുന്നു ആദ്യം അതിൻറെ ഓക്സിലറി സമവാക്യം എഴുതേണ്ടതുണ്ട് അതിനർത്ഥം യെ കൊണ്ട് മാറ്റിയെഴുതി എന്ന രൂപത്തിൽ ലഭിക്കുന്ന സമവാക്യം എഴുതുക അതിൻറെ റൂട്ടുകൾ എന്നിവയായിരിക്കും കേസ് 1 ആവർത്തിക്കാത്ത റിയൽ റൂട്ടുകൾ ആകുമ്പോൾ ഉള്ള സന്ദർഭം ഇവിടെ സൊലൂഷൻ എന്നായിരിക്കും ഇതിലെ ഓരോ പദവും തന്നിരിക്കുന്ന ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യത്തിൻറെ സൊല്യൂഷൻ ആയിരിക്കും അതിനാൽ അവയുടെ ലീനിയർ കോമ്പിനേഷൻ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊല്യൂഷൻ നൽകും കേസ് 2 ആവർത്തിക്കുന്ന റിയൽ റൂട്ടുകൾ ആകുമ്പോൾ ഉള്ള സന്ദർഭം റൂട്ടുകളെ എന്നു വിളിക്കുന്നു ഈ കേസിൽ എന്ന രൂപത്തിലായിരിക്കും ജനറൽ സൊലൂഷൻ ആവർത്തിച്ചുള്ള റൂട്ടിന് അനുസരിച്ച് നിങ്ങൾക്ക് ലീനിയർ പോളിനോമിയൽ ഉണ്ടാകും ഒരു റൂട്ട് 2 തവണ ആവർത്തിക്കുമ്പോൾ നമുക്ക് എന്നീ കോൺസ്റ്റന്റ്കളോട് കൂടിയ എന്ന ലീനിയർ പോളിനോമിയൽ ലഭിക്കും കേസ് 3 ആവർത്തിക്കാത്ത കോംപ്ലക്സ് റൂട്ടുകൾ ആകുമ്പോൾ ഉള്ള സന്ദർഭം റൂട്ടുകളെ എന്നു വിളിക്കുന്നു ഇതിലെ ആദ്യ രണ്ട് റൂട്ടുകൾ കോംപ്ലക്സ് റൂട്ടുകളാണ് α iβ α iβ അതിനാൽ ഈ സാഹചര്യത്തിൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ കോംപ്ലിമെൻററി ഫംഗ്ഷൻ എന്നാണ് കേസ് 4 ആവർത്തിക്കുന്ന കോംപ്ലക്സ് റൂട്ടുകൾ ആകുമ്പോൾ ഉള്ള സന്ദർഭം റൂട്ടുകൾ ആണെന്ന് നമുക്ക് എടുക്കാം അതിനാൽ എന്നായിരിക്കും സൊല്യൂഷൻ ഇത് മുഴുവൻ സംഗ്രഹമാണ് നമുക്ക് ആവർത്തിക്കാത്ത റിയൽ റൂട്ട് ഉണ്ടാകുമ്പോൾ എന്ന രൂപത്തിൽ ആയിരിക്കും സൊല്യൂഷൻ എന്നാൽ ആവർത്തിച്ചാൽ നമുക്ക് പോളിനോമിയൽ പദം കോൺസ്റ്റന്റ്കളുമായി ഉണ്ടാകും കോംപ്ലക്സ് റൂട്ടുകൾ ഉള്ളപ്പോൾ നമുക്ക് കൃത്യമായി പദങ്ങളും ആവർത്തിച്ചുള്ള കോംപ്ലക്സ് റൂട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ട് തുടർന്ന് പോലുള്ള പോളിനോമിയൽ പദങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് രണ്ട് ഉദാഹരണങ്ങളിലൂടെ വേഗത്തിൽ പോകാം ഇവിടെ ഒന്നാമത്തെ ഉദാഹരണം എന്ന സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യം ആണ് ആദ്യ ഘട്ടമെന്ന നിലയിൽ ഈ സമവാക്യം ഓപ്പറേറ്റർ രൂപത്തിൽ എഴുതേണ്ടതുണ്ട് അതിനാൽ ഇതിനെ എന്ന് എഴുതാം സമവാക്യത്തിന്റെ ഓപ്പറേറ്റർ ഫോം ലഭിച്ചുകഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടർസ്റ്റിക് സമവാക്യം അഥവാ ഓക്സിലറി സമവാക്യം എളുപ്പത്തിൽ എഴുതാം ഇതുമായി ബന്ധപ്പെട്ട ഓക്സിലറി സമവാക്യം നമുക്ക് യെ കൊണ്ട് മാറ്റിയെഴുതിയാൽ ലഭിക്കും നമുക്ക് ഇവിടെ എന്നു ലഭിക്കുന്നു ഈ സമവാക്യം പരിഹരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ കേസിൽ ഇത് വളരെ ലളിതമാണ് നമുക്ക് ഇവിടെ എന്നുള്ളതിൽ നിന്നും എന്നീ സൊലൂഷന്കൾ ലഭിക്കുന്നു അതിനാൽ ഈ ഓക്സിലറി സമവാക്യത്തിന്റെ റൂട്ടുകൾ 2 ഉം 3 ഉം ആണ് അവ രണ്ട് വ്യത്യസ്തമായ റൂട്ടുകൾ ആണ് വ്യത്യസ്തമായ റൂട്ടുകളുടെ കാര്യത്തിൽ സൊലൂഷൻകൾ എന്നിങ്ങനെയാണ് അതുകൊണ്ട് നൽകിയ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊല്യൂഷൻ എന്നായിരിക്കും ഇത് നൽകിയ ഡിഫറൻഷ്യൽ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് സമവാക്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പരിശോധിക്കാനും കഴിയും ഉദാഹരണം 2 ൽ നമ്മൾ എന്ന ഫോർത്ത് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യം എടുക്കുന്നു വീണ്ടും ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിന് അനുസരിച്ച് നമുക്ക് ഓപ്പറേറ്റർ രൂപത്തിൽ എഴുതാം അത് എന്നെഴുതാം ശേഷം ക്ക് പകരം മാറ്റിയെഴുതി ഓക്സിലറി സമവാക്യം എഴുതാം ഇത് പരിഹരിക്കാൻ പ്രയാസമുള്ള ഫോർത്ത് ഓർഡർ ഓക്സിലറി സമവാക്യമാണ് നമ്മൾ ഇത് പരിഹരിച്ചുകഴിഞ്ഞാൽ റൂട്ടുകൾ എന്നിങ്ങനെ ആവർത്തിച്ചുള്ള റിയൽ നമ്പറുകളും കോംപ്ലക്സ് കോഞ്ച്ഗേറ്റുകളുമായി ലഭിക്കുന്നു അതിനാൽ നൽകിയ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ കോംപ്ലിമെൻററി ഫംഗ്ഷൻ അഥവാ ജനറൽ സൊലൂഷൻ നമ്മൾ എഴുതേണ്ടതുണ്ട് ആദ്യം ഇത് ആവർത്തിച്ചുള്ള റൂട്ട് കേസ് അതിനാൽ ആവർത്തിച്ചുള്ള റിയൽ റൂട്ടുകൾ ആവുമ്പോഴുള്ള കേസ് ഓർക്കുക ഇവിടെ സൊലൂഷൻ എന്ന് നമുക്ക് ലഭിക്കും ജനറൽ സൊല്യൂഷൻൽ ആവർത്തിച്ചുള്ള റൂട്ട് ഉള്ളത് കാരണം എന്ന പദം ഉണ്ടായിരിക്കും ആവർത്തിക്കാത്ത കോംപ്ലക്സ് റൂട്ടുകൾ ഉള്ളത് കാരണം എന്നീ രണ്ട് പദങ്ങളും ലഭിക്കുന്നു നമുക്ക് തന്നിരിക്കുന്ന സമവാക്യം ഫോർത്ത് ഓർഡർ സമവാക്യമായിരുന്ന ഈ സാഹചര്യത്തിൽ ജനറൽ സൊലൂഷൻൽ നാല് കോൺസ്റ്റന്റ്കളുണ്ടാകും നമ്മൾ ഉപസംഹരിക്കുന്നു ഇന്ന് നമ്മൾ എന്ന തരത്തിലുള്ള ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊലൂഷനെ കുറിച്ച് ചർച്ചചെയ്തു സൂചിപ്പിക്കുന്നത് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഫംഗ്ഷനെയാണ് ഈ സമവാക്യത്തിൻറെ ജനറൽ സൊലൂഷനെ നമ്മൾ കോംപ്ലിമെൻററി ഫംഗ്ഷൻ എന്നു വിളിക്കുന്നു നിർണായക ഭാഗം ആയിട്ടുള്ളത് ആദ്യം നമ്മൾ ഓക്സിലറി സമവാക്യം എഴുതുന്നു അതിൻറെ റൂട്ടുകളും അവയുടെ സ്വഭാവവും കണ്ടെത്തുന്നു അത് വ്യത്യസ്തങ്ങളായ റിയൽ റൂട്ടുകൾ ആവർത്തിച്ചുള്ള റിയൽ റൂട്ടുകൾ കോംപ്ലക്സ് റൂട്ടുകൾ ആവർത്തിച്ചുള്ള കോംപ്ലക്സ് റൂട്ടുകൾ എന്നിങ്ങനെഒക്കെ ആവാം സൊലൂഷൻ എഴുതുന്നതിന് റൂട്ടുകളുടെ സ്വഭാവം അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ പ്രധാനമാണ് ഓരോ സാഹചര്യത്തിലും തന്നിരിക്കുന്ന ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാമെന്ന് നമുക്കറിയാം അടുത്ത ലക്ച്ചറിൽ തന്നിരിക്കുന്ന നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താമെനന്നുള്ളത് നമ്മൾ പഠിക്കും കോംപ്ലിമെൻററി ഫംഗ്ഷനും ഈ പ്രത്യേക സൊലൂഷനും കൂട്ടിച്ചേർക്കുമ്പോൾ അടിസ്ഥാനപരമായി തന്നിരിക്കുന്ന ഹോമോ ജീനിയസ് അല്ലാത്ത ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ ജനറൽ സൊല്യൂഷൻ ലഭിക്കും ലക്ച്ചറുകൾ തയ്യാറാക്കാൻ ഉപയോഗിച്ച റഫറൻസുകൾ ഇവിടെയുണ്ട് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി